സ്വാഗതം ക്വയരി ഒപ്റ്റിമൈസേഷൻ എന്ന അടുത്ത വിഷയത്തെക്കുറിച്ച് നമുക്ക് ആരംഭിക്കാം അതിനാൽ ക്വയരി ഒപ്റ്റിമൈസേഷൻ എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാൽ വ്യത്യസ്ത ക്വയരി പ്രോസസ്സിംഗ് അൽഗോരിതങ്ങൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഒരു പ്രത്യേക ക്വയരിക്കായി അത്തരം വ്യത്യസ്ത അൽഗോരിതങ്ങൾ പ്രയോഗിക്കാൻ കഴിയും അതിനാൽ ഏത് അൽഗോരിതം പ്രയോഗിക്കണം എന്നതാണ് ചോദ്യം അതാണ് ഈ ക്വയരി ഒപ്റ്റിമൈസേഷന്റെ ചർച്ചാ വിഷയം ഇപ്പോൾ ഒന്നാമതായി ഒരു ക്വയരി വിലയിരുത്തുന്നതിനുള്ള വ്യത്യസ്ത മാർഗങ്ങൾ ഉള്ളത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനാൽ അതിനെ ഇക്വിവാലെന്റ് എക്സ്പ്രെഷൻസ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇക്വിവാലെന്റ് ആയ ഒന്നിലധികം ആൽജിബ്രയിക് എക്സ്പ്രെഷൻസ് ഉണ്ടാകാം ഞാൻ ഉടൻ തന്നെ ഒരു ഉദാഹരണം നൽകാൻ പോകുന്നു എന്നാൽ ഇക്വിവാലെന്റ് എന്ന പദം അർത്ഥമാക്കുന്നത് ഇൻപുട്ട് എന്തുതന്നെയാണെങ്കിലും ഒരേ ഇൻപുട്ടിന് അവ ഒരേ ഔട്ട്പുട്ട് നൽകുകയാണെങ്കിൽ രണ്ട് എക്സ്പ്രെഷൻസും പരസ്പരം ഇക്വിവാലെന്റ് ആയി കണക്കാക്കപ്പെടുന്നു എന്നാണ് ഇൻപുട്ട് എന്തുതന്നെയായാലും അത് ഒരു പ്രത്യേക തരം ഇൻപുട്ടിന് മാത്രമല്ല സാധ്യമായ എല്ലാ ഇൻപുട്ടുകൾക്കും അങ്ങനെയായിരിക്കണം ഇവിടെ രണ്ട് ഇക്വിവാലെന്റ് എക്സ്പ്രെഷൻസുകളുടെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം അതിനാൽ ആദ്യം ഒരു അക്കൌണ്ട് ഉണ്ടെന്ന് കരുതുക അത് അത് ജോയിൻ ചെയ്തിരിക്കുന്നു നിക്ഷേപകനുമായുള്ള നാച്ചുറൽ ജോയിൻ ഇപ്പോൾ ഇതിന്റെ ഫലം ഇതാണ് ബ്രാഞ്ചുമായുള്ള നാച്ചുറൽ ജോയിൻ അതിന്റെ ഫലം പിന്നീട് ഒരു ഫംഗ്ഷനിലൂടെ അപ്ലൈ ചെയ്യുന്നു അതായത് ബ്രാഞ്ച് സിറ്റി എന്നത് ABC ക്ക് തുല്യമാണ് അതായത് ചില എക്സ്പ്രെഷൻസ് ഒടുവിൽ ഇത് എല്ലാ ഉപഭോക്താവിന്റെ പേരുകളുടെ മേലിലും അപ്ലൈ ചെയ്യുന്നു അതിനാൽ ഈ എക്സ്പ്രെഷനു എന്താണ് വേണ്ടത് ഈ എക്സ്പ്രെഷൻ എന്താണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് അത് ഉപഭോക്താവിന്റെ പേരുകൾ അഥവാ ABC എന്ന നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബ്രാഞ്ചിൽ അക്കൌണ്ട് ഉള്ളഎല്ലാ ഉപഭോക്താക്കളുടെയും പേരുകൾ കണ്ടെത്താൻ ഇത് ശ്രമിക്കുന്നു അതിനാൽ ഇതാണ് ഇത് ചെയ്യാനുള്ള ആശയം ഇപ്പോൾ ഇത് വിലയിരുത്തുന്നതിനുള്ള ഒരു മാർഗമാണിത് ഇപ്പോൾ ഇക്വിവാലെന്റ് എക്സ്പ്രെഷൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാൽ അത്തരമൊരു എക്സ്പ്രെഷൻ കാണിക്കുമ്പോൾ ഇതിനെ ഒരു എക്സ്പ്രഷൻ ട്രീ എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് ചെയ്യുമ്പോൾ അത് പറയുന്നത് എന്താണെന്നാൽ ആദ്യം ഒരു അക്കൌണ്ടും നിക്ഷേപകനും ഒരു അക്കൌണ്ടിന്റെയും നിക്ഷേപകന്റെയും നാച്ചുറൽ ജോയിൻ രൂപപ്പെടുന്നു അതിന്റെ ഫലം ബ്രാഞ്ചുമായുള്ള നാച്ചുറൽ ജോയിൻ ആണ് അതിന്റെ ഫലമായി അവസാനം ബ്രാഞ്ച് സിറ്റി എന്നിവ തിരഞ്ഞെടുക്കുന്നു ഈ പ്രൊജക്ഷൻ നടത്തുകയും ചെയ്യുന്നു അതിനാൽ കമ്പ്യൂട്ടെഷൻ തുടരുന്നു അല്ലെങ്കിൽ ഓർഡർ ലീഫിൽ നിന്നു മുകളിലേക്ക് പോകുന്നു അതാണ് ചെയ്യുന്നത് ഇപ്പോൾ അവിടെ താഴെ പറയുന്ന രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഇക്വിവാലെന്റ് എക്സ്പ്രെഷൻ ഉണ്ട് ഇപ്പോൾ നമുക്ക് അത് എഴുതാൻ ശ്രമിക്കാം സിഗ്മ ബി സിറ്റി നിർവഹിക്കപ്പെടുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് കരുതുക അതിനുശേഷം അത് നിങ്ങളുടെ അക്കൌണ്ട് ഡെപ്പോസിറ്റർ എന്നിവയുടെ നാച്ചുറൽ ജോയിനുമായി ജോയിൻ ചെയ്യുന്നു ഒടുവിൽ ഉപഭോക്താവിന്റെ പേര് പുറത്തേക് പ്രൊജക്റ്റ് ചെയ്യുന്നു അതിനാൽ ഒന്നാമതായി എന്തുകൊണ്ടാണ് ഈ ഇക്വിവാലെന്റ ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ചെയ്തത് അതിനാൽ ഒന്നാമതായി ബ്രാഞ്ച് സിറ്റി എക്സ്പ്രഷൻ ബ്രാഞ്ച് സിറ്റി എക്സ്പ്രഷന്മേൽ ഉള്ള സെലക്ഷൻ ജോയിനേക്കാൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനാൽ ഇത് ജോയിനേക്കാൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനാൽ ഈ ഇവാല്യൂവേഷൻ പ്ലാൻ ഇവിടെ നിന്ന് ഇവിടേക്ക് പോകുന്നു അതിനാൽ ഈ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഇത് ജോയിൻ ചെയ്യുന്നു എന്തുകൊണ്ടാണ് അത് ഈക്വിവാലെന്റ ആയത് എന്നാൽ ബ്രാഞ്ച് സിറ്റി ആട്രിബ്യൂട്ട് നിലവിലുള്ളത് ബ്രാഞ്ചിൽ മാത്രമാണ് അതിനാൽ കൃത്യതയെ സംബന്ധിച്ചിടത്തോളം ജോയിൻ ചെയ്യപ്പെടുന്നത് എപ്പോളാണ് എന്നത് പ്രശ്നമല്ല പക്ഷേ ഇത് ചെയ്യുന്നതിന്റെ ഫലം എന്താണ് എന്ന് ഒരാൾക്ക് കാണാൻ കഴിയും ഈ സെലെക്ഷൻറെ അവസാനമുള്ള ഔട്ട്പുട്ട് അഥവാ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ടിനെക്കാൾ വളരെ കുറവാണ് അതിനാൽ ഈ ജോയിൻ ഈ ജോയിനേക്കാൾ വളരെ വേഗതയുള്ളതാണ് ഈ ജോയിനേക്കാൾ കാര്യക്ഷമതയുള്ളതുമാണ് കാരണം ഇത് ഇന്റർ ബ്രാഞ്ച് ടേബിളുമായി ജോയിൻ ചെയ്തിരിക്കുന്നു ഈ ഭാഗവും തീർച്ചയായും ഇതിനു സമാനമാണ് ഇത് ഇന്റർ ബ്രാഞ്ച് ടേബിളുമായി ജോയിൻ ചെയ്തിരിക്കുന്നു അതെ സമയം ഇത് ABC എന്ന സിറ്റിയിൽ ഉള്ള ബ്രാഞ്ചുകളുമായി മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളു അതിനാൽ ഇത് വളരെ വേഗതയുള്ളതായിരിക്കും അതിനാൽ ഈ ക്വയറി ഒപ്റ്റിമൈസേഷന്റെ മുഴുവൻ ആശയവും ഈ എല്ലാ ഈക്വിവാലെന്റ് എക്സ്പ്രെഷൻസും തിട്ടപ്പെടുത്തുക എന്നതാണ് കൂടാതെ ആ ഈക്വിവാലെന്റ് എക്സ്പ്രെഷൻസുകളിൽ നിന്ന് വേഗതയേറിയതാണെന്ന് കരുതപ്പെടുന്ന മികച്ചതാണെന്ന് കരുതപ്പെടുന്ന ഒന്ന് തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഇവ രണ്ടിനുമിടയിൽ നിന്ന് ഒരാൾക്ക് ഇത് വേഗതയേറിയതോ അല്ലെങ്കിൽ ഇതിനെപ്പോലെ ഏറ്റവും മോശമായതോ ആയിരിക്കുമെന്ന് വ്യക്തമായി കാണാൻ കഴിയും ഡാറ്റാബേസ് എഞ്ചിൻ യഥാർത്ഥത്തിൽ ഈ രീതിയിൽ അല്ല ഈ രീതിയിൽ ആയിരിക്കും ക്വയറി വിലയിരുത്തുന്നത് അതിനാൽ ഇതാണ് തെറ്റായത് ഇപ്പോൾ ഇത് ഈക്വിവാലെന്റ് എക്സ്പ്രെഷൻ ആണ് തുടർന്ന് ഇവാലുവേഷൻ പ്ലാൻ എന്ന് വിളിക്കപ്പെടുന്ന ചിലതുണ്ട് ഈ ഈക്വിവാലെന്റ് എക്സ്പ്രെഷന് പുറമേ ഇവാലുവേഷൻ പ്ലാനും പറയുന്നത് ഓരോ ഓപ്പറേഷനും ഏത് അൽഗോരിതം ഉപയോഗിക്കാൻ പോകുന്നു എന്നാണ് ഉദാഹരണത്തിന് ഇത് നാച്ചുറൽ ജോയിൻ ആണ് അതിനാൽ അവിടെ ഇവ ഓരോന്നും ചെയ്യാൻ അപ്ലൈ ചെയ്യാവുന്ന അഞ്ച് ജോയിൻ അൽഗോരിതങ്ങൾ ഉണ്ട് അത് ഈ ജോയിൻ ചെയ്യാൻ അപ്ലൈ ചെയ്യാവുന്നതാണ് ഏത് അൽഗോരിതം ചെയ്യാൻ പോകുന്നു അതിനെയാണ് ഇവാലുവേഷൻ പ്ലാൻ എന്ന് പറയുന്നത് അതിനാൽ ഇവാലുവേഷൻ പ്ലാനിന്റെ ഒരു എക്സ്പ്രഷൻ താഴെ പറയുന്നവയായിരിക്കും അതിനാൽ നമുക്ക് ഒരു ഉദാഹരണം വീണ്ടും എഴുതാം ഇത് ബ്രാഞ്ച് ആണെന്ന് കരുതുക തുടർന്ന് ഇത് ചെയ്യപ്പെടുന്ന ഏതോ ഒരു ആണെന്ന് നിങ്ങൾ പറയുന്നു ഈ സിഗ്മ ചെയ്യപ്പെടുന്നത് ഇൻഡക്സ് ഉപയോഗിച്ചാണ് പിന്നെ അത് ജോയിൻ ചെയ്യുന്നു മറ്റൊരു റിലേഷൻ ഡെപ്പോസിറ്റർ ഉണ്ടെന്ന് നമുക്ക് പറയാം അതിൽ നിന്ന് മറ്റൊരു ചെയ്യപ്പെടുന്നു ഈ ഒരു ലീനിയർ സ്കാൻ ഉപയോഗിച്ച് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാം പിന്നെ ഈ ജോയിൻ നമുക്ക് മെർജ് ജോയിൻ എന്ന് പറയാം പിന്നെ ചെയ്യപ്പെടുന്ന മറ്റൊരു ജോയിൻ ഉണ്ട് അതായത് ഹാഷ് ജോയിൻ എന്ന് നമുക്ക് പറയാം കാരണം ഇത് അക്കൌണ്ടോ മറ്റോ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം ഒടുവിൽ അവിടെ പ്രൊജക്ഷൻ എടുത്തിട്ടുണ്ട് അത് ലളിതമായി മൂവിങ് ഡ്യൂപ്ലിക്കേറ്റ്സ് മുതലായവയാണ് കാരണം ഈ പുതിയ ഡ്യൂപ്ലിക്കേറ്റുകൾ ചെയ്യാൻ കഴിയും അതിനാൽ ഇതാണ് പൂർണ്ണമായ ഇവാലുവേഷൻ പ്ലാൻ കാരണം ഈ ഓരോ ഓപ്പറേഷനിലും അനുബന്ധ അൽഗോരിതം കൂടി പരാമർശിക്കപ്പെടുന്നു അതിനാൽ അതാണ് ഒരു ഇവാലുവേഷൻ പ്ലാൻ അത് ഒരു ഇക്വിവാലെന്റ എക്സ്പ്രഷനെക്കാൾ കുറച്ചുകൂടി വിപുലമാണ് അതിനാൽ ഒപ്റ്റിമൈസേഷൻ പ്ലാൻ എന്നത് കോസ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ പ്ലാൻ ചെയ്യുക എന്നതാണ് അതിനാൽ ഈ ഓരോ ഇവാലുവേഷൻ പ്ലാനും ആദ്യം കോസ്റ്റിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും കുറഞ്ഞ കോസ്റ്റ് കണക്കാക്കുന്നതിന്റെ ഫലമായുള്ള ഇവാലുവേഷൻ പ്ലാൻ നടപ്പിലാക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഇത് ഒരു എസ്റ്റിമേറ്റ് മാത്രമാണെന്നത് ശ്രദ്ധിക്കുക അതിനാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മറ്റു പല ഇവാലുവേഷൻ പ്ലാനുകൾ ഉണ്ടായേക്കാം ഇത് ഒരു പ്രത്യേക ക്വയറിക്ക് മികച്ച റൺ ടൈമിന് കാരണമാകും പക്ഷേ എസ്റ്റിമേറ്റുകൾക്ക് അത് പറയാൻ കഴിഞ്ഞില്ല എന്താണോ മികച്ച എസ്റ്റിമേറ്റ് നൽകിയിരിക്കുന്നത് അത് ഡാറ്റാബേസ് എഞ്ചിൻ കേവലം പിന്തുടരുന്നു അതിനാൽ ഇക്വിവാലെന്റ എക്സ്പ്രഷൻസിന്റെ സന്ദർഭത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇത് നോക്കാം രണ്ട് എക്സ്പ്രഷൻസ് നമ്മൾ പറഞ്ഞതുപോലെ എപ്പോഴാണ് ഇക്വിവാലെന്റ ആവുന്നത് ഞാൻ പറഞ്ഞതുപോലെ രണ്ട് എക്സ്പ്രഷനുകൾ രണ്ട് റിലേഷണൽ ആൾജിബ്രാ എക്സ്പ്രഷനുകൾ ഒരേ സെറ്റ് ഇൻപുട്ടിന് അവ ഒരേ സെറ്റ് ഔട്ട്പുട്ട് സൃഷ്ടിക്കുകയാണെങ്കിൽ അവ ഇക്വിവാലെന്റ ആണ് ഒരു കൂട്ടം ഇക്വിവാലെൻസ് നിയമങ്ങളാൽ ഇത് വ്യക്തമാക്കുന്നു അതിനാൽ അത്തരം നിരവധി നിയമങ്ങൾ നമ്മൾ വ്യക്തമാക്കും ഏത് എക്സ്പ്രഷനുകൾ ആണ് ഇക്വിവാലെന്റ ആയത് എന്ന് ഇത് വ്യക്തമാക്കുന്നു പിന്നെ ഒരിക്കൽ എക്സ്പ്രഷൻ ട്രീ സൃഷ്ടിക്കപ്പെട്ടാൽ അതിനാൽ ഒരു എക്സ്പ്രഷൻ ട്രീയിൽ നിന്ന് ഇത് എക്സ്പ്രഷൻ ട്രീ ആണെന്ന് നമുക്ക് പറയാം ഈ ഇക്വിവാലെൻസ് നിയമങ്ങൾ ഓരോന്നും പ്രയോഗിക്കുന്നു ഈ എക്സ്പ്രഷനുള്ളിൽ മറ്റ് ചില എക്സ്പ്രഷനുണ്ട് മറ്റൊരു എക്സ്പ്രഷൻ ട്രീ സൃഷ്ടിക്കുന്നതിന് ഒരു ഇക്വിവാലെൻസ് എക്സ്പ്രഷൻ നിയമം പ്രയോഗിക്കുന്നു എല്ലാ എക്സ്പ്രഷനുകളും എല്ലാ ഇക്വിവാലെൻസ് എക്സ്പ്രഷനുകളും തീർന്നുപോകുന്നതുവരെ ഇത് തുടരുന്നു അതിനാൽ സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ എക്സ്പ്രഷൻ ട്രീകളുടെയും ആകെ കൂട്ടമാണിത് ജനറേഷൻ മെക്കാനിസം അനുസരിച്ച് ഇവയെല്ലാം എക്സ്പ്രഷൻ ട്രീകൾ ആകും കാരണം ഒരു ട്രീയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു എക്സ്പ്രഷൻ മാത്രമേ മാറുന്നുള്ളു ഈ ട്രീയിലെ എക്സ്പ്രഷൻ വൺ ഈ ട്രീകളിലെ എക്സ്പ്രഷൻ ടൂവിന് തുല്യമാണെന്ന് ഇക്വിവാലെൻസ് നിയമങ്ങൾ പറയുന്നു അതിനാൽ ഇതിനർത്ഥം ഈ രണ്ട് ട്രീകളും ഈക്വിവാലെന്റ ആണ് അതിനാൽ നമുക്ക് ഇക്വിവാലെൻസ് നിയമങ്ങൾ എന്താണെന്ന് നോക്കാം താഴെ പറയുന്നതാണ് ആദ്യ ഇക്വിവാലെൻസ് നിയമം അതിനാൽ ൽ എന്നീ രണ്ട് കണ്ടിഷൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടിഷൻസ് പ്രയോഗിക്കുന്നതിന് തുല്യമാണ് അഥവാ രണ്ട് കൾ ഒന്നിനുപുറകെ ഒന്നായി ചെയ്യുന്നതിനു തുല്യമാണ് ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ് കൂടാതെ ഇതും സമാനമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ രണ്ട് കളും ചെയ്യുന്നതിന്റെ ക്രമം മാറ്റാവുന്നതാണ് കാരണം ഇത് പ്രശ്നമല്ല അതിനാൽ ഇതാണ് ആദ്യ ഇക്വിവാലെൻസ് നിയമം രണ്ടാമത്തെ ഇക്വിവാലെൻസ് നിയമം അവിടെ പ്രൊജക്ഷനുകളുടെ ഒരു സീരീസ് ഉണ്ടെന്ന് കരുതുക പ്രൊജക്ഷനുകളുടെ ഒരു സീരീസ് അവസാനമായി ഒരു ഉണ്ട് ഇത് അവസാന പ്രൊജക്ഷൻ ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ തീർച്ചയായും ഇവ രണ്ടും സംഭവിക്കണമെങ്കിൽ L1 എന്നത് L2 ന്റെ ഉപവിഭാഗവും L2 എന്നത് Ln ന്റെ ഉപവിഭാഗവും അത്തരം കാര്യങ്ങളെല്ലാം ആയിരിക്കണം പക്ഷേ ഈ പ്രൊജക്ഷനുകളെല്ലാം അർത്ഥവത്താകുന്നില്ലെങ്കിൽ ഒരാൾക്ക് ഫൈനൽ പ്രൊജക്ഷൻ നടത്താൻ കഴിയും അടുത്ത ഇക്വിവാലെൻസ് നിയമം ഒരു ഉണ്ടെന്ന് കരുതുക തുടർന്ന് ഒരു സിഗ്മയുണ്ട് അതിലേക്കു ഒരു കണ്ടിഷൻ പ്രെഡിക്കേറ്റ് അപ്ലൈ ചെയ്യുന്നു ഇപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായി ജോയ്നിന്റെ നിർവചനം അതിനാൽ ഇത് കേവലം E2 മായുള്ള E1 ന്റെ ജോയിൻ ആണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പൂർത്തിയാക്കിയതിനുശേഷം എന്നത് സെലെക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്യുന്നതിന് തുല്യമാണ് ഈ ജോയിൻ ഉപയോഗിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതിനാൽ എന്ന ജോയിൻ കണ്ടിഷൻ ഉണ്ടെന്നു കരുതുക തുടർന്ന് ന്റെ സെലെക്ഷൻ നടക്കുന്നു അത് എന്നിവയുടെ മേൽ ജോയിൻ ചെയ്യുന്നതിന് സമാനമാണ് ഇപ്പോൾ ഈ ഈക്വിവാലെന്റ എക്സ്പ്രഷൻസ് ഞാൻ എഴുതുമ്പോഴെല്ലാം അവയെല്ലാം തെളിയിക്കാനാകും എന്നാൽ ഇവ ശരിയാകുമെന്ന് നിങ്ങൾക്ക് അവബോധപൂർവ്വം പിന്തുടരാനും നിങ്ങൾക്ക് വേണമെങ്കിൽ തെളിവുകൾ പരീക്ഷിക്കാനും കഴിയും പിന്നെ അടുത്തതായി എങ്ങനെയാണ് ജോയിൻ എഴുതുക E1 ഇടത്താണോ E2 ഇടത്താണോ എന്നത് പ്രശ്നമല്ല അതിനാൽ ഇത് കേവലം കമ്മ്യൂട്ടെറ്റിവ് ആണ് അത് മനസ്സിലാക്കാൻ എളുപ്പമാണ് പിന്നെ രസകരമായ ചില കാര്യങ്ങൾ ഉണ്ട് അതിനാൽ ഇത് ജോയിൻ ആണ് അത് ഒടുവിൽ E3 മായി ജോയിൻ ചെയ്തു ഇത് ആദ്യം E2 E3 എന്നിവയുടെ ജോയിൻ ചെയ്തതിനു ശേഷം E1 മായി ജോയിൻ ചെയ്യുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഇതിനുള്ളിൽ ചില അനുമാനങ്ങൾ ഉണ്ട് അത് E2 E3 എന്നിവ ഇവ നാച്ചുറൽ ജോയിനുകൾ ആണ് അതിനാൽ E2 E3 എന്നിവ ആട്രിബ്യൂട്ടുകൾ പങ്കിടുന്നു എന്ന അനുമാനമുണ്ട് അതിനാൽ നാച്ചുറൽ ജോയിൻ കൈകാര്യം ചെയ്യാൻ കഴിയും അതിനാൽ സമാനമായി E1 E2 എന്നിവയും E2 എന്നത് പ്രധാനമായും E1 E3 എന്നിവയുമായി ആട്രിബ്യൂട്ടുകൾ പങ്കിടുന്ന സെൻട്രൽ റിലേഷൻ ആണ് അതിനാൽ ഏത് നാച്ചുറൽ ജോയിൻ ആണ് ആദ്യം ചെയ്യുന്നത് എന്നത് പ്രശ്നമല്ല അതിനാൽ E2 ന് ആദ്യം E1 നോടൊപ്പം പോകാം തുടർന്ന് E3 നോടൊപ്പം പോകാം അല്ലെങ്കിൽ ആദ്യം E3 നോടും അതിനു ശേഷം E1 നോടും ഒപ്പം പോകാം കാർട്ടീഷ്യൻ പ്രൊഡക്ടിനായുള്ള വളരെ സമാനമായ ഒരു നിയമത്തിൽ ഒരുപക്ഷെ അത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും പക്ഷേ പൂർണ്ണതയ്ക്കായി ഞാൻ ഇത് എഴുതട്ടെ വീണ്ടും അതേ ആശയം തന്നെയാണ് ഏത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റാണ് ആദ്യം ചെയ്യുന്നത് എന്നത് പ്രശ്നമല്ല